ഫാരഡെയുടെ നിയമം ലെൻസിന്റെ നിയമം യാഥാസ്ഥിതികമല്ലാത്ത ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡുകളുടെ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള പ്രദർശന പരീക്ഷണങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫാരഡെയുടെ നിയമത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ലെൻസിന്റെ നിയമത്തെക്കുറിച്ചുമാണ് സംസാരിച്ചത് ഈ നിയമങ്ങൾ പറയുന്നത് മാറുന്ന ഫ്ലക്സ് ഒരു EMF ന് കാരണമാകുന്നു EMF മാറ്റത്തെ എതിർക്കുന്ന തരത്തിലാണ് ഉണ്ടാകുന്നത് മൂന്നാമതായി കാന്തിക മണ്ഡലം മാറ്റുന്നതിലൂടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുത മണ്ഡലം അതായത് dBdt 0 ന് തുല്യമല്ല അതായത് യാഥാസ്ഥിതികമല്ല ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങൾക്ക് ചില പ്രകടനങ്ങൾ കാണിക്കാൻ പോകുന്നു അതിലൂടെ ഞാൻ നിങ്ങൾക്ക് ഫാരഡെയുടെ നിയമം കാണിച്ചുതരും ഒരു ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ ബൾബ് പ്രകാശിപ്പിക്കുന്നു എന്നും കാണാം കൂടാതെ ലെൻസിന്റെ നിയമത്തിന്റെ പ്രദർശനം ഞാൻ കാണിച്ചുതരും മാത്രമല്ല മാറുന്ന കാന്തികമണ്ഡലം ഉൽപാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലത്തിന്റെ യാഥാസ്ഥിതികമല്ലാത്ത സ്വഭാവവും ഞാൻ കാണിക്കുന്നതായിരിക്കും ഫാരഡെയുടെ നിയമം പ്രദർശിപ്പിക്കാൻ നമുക്ക് ഇവിടെ ഈ ബോക്സിനുള്ളിൽ വളരെയധികം തിരിവുകൾ ഉള്ള ഒരു കറന്റ് വഹിക്കുന്ന വയർ ഉണ്ട് അത് ഇവിടേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഇവിടെ ധാരാളം ഇരുമ്പ് നിറഞ്ഞിട്ടുണ്ട് കാന്തികക്ഷേത്രം ഇവിടെ കേന്ദ്രീകരിക്കുന്ന സൈക്കിൾ സ്പോക്കുകളാണ് അവ ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ AC വിതരണം വരുന്നു AC വിതരണം ഇവിടെ വരുമ്പോൾ അത് ഒരു കാന്തികക്ഷേത്രം ഉണ്ടാക്കുന്നു അത് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന കാന്തികക്ഷേത്രം അതായത് കാലക്രമേണ മാറുന്നത് ഒരു വൈദ്യുത മണ്ഡലം ഉണ്ടാക്കുന്നു അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഞാൻ ഇവിടെ ഒരു വയർ ഇട്ടാൽ അത് ഒരു വൈദ്യുത പ്രവാഹത്തിന് കാരണമാകുന്നു ആ കറന്റിന്റെ പ്രഭാവം ഞാൻ കാണണം ഉദാഹരണത്തിന് ചുറ്റും കാണുന്ന നിരവധി വയറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ബൾബ് ഇവിടെ കാണാം അതിനാൽ കാന്തികക്ഷേത്രം മാറുന്നതിനാൽ ഒരു വൈദ്യുത മണ്ഡലം ഉത്പാദിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു EMF ഉത്പാദിപ്പിക്കപ്പെടുകയോ ചെയ്താൽ അത് ഇവിടെ ഒരു വൈദ്യുതധാര ഉണ്ടാക്കും ഞാൻ AC ഓൺ ചെയ്യുമ്പോൾ ഈ ബൾബ് പ്രകാശിക്കും ഈ സ്വിച്ച് വഴി ഞാൻ കറന്റ് ഓണാക്കിയ ഉടൻ നിങ്ങൾക്ക് ബൾബ് പ്രകാശിക്കുന്നത് കാണാം സമാനമായ രീതിയിൽ ഞാൻ ഇവിടെ ധാരാളം LED കൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു വർണ്ണാഭമായ പ്രകടനം കാണിക്കാൻ മാത്രമാണ് ധാരാളം LED കൾ ഒരേ സെറ്റ് വയറുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ അത് ഓണാക്കിയ ഉടൻ LED കൾ വ്യത്യസ്ത നിറങ്ങളിൽ പ്രകാശിക്കുന്നുവെന്ന് നിങ്ങൾ കാണും അതിനാൽ മാറിക്കൊണ്ടിരിക്കുന്ന ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു വൈദ്യുത മണ്ഡലം കാരണം ഈ core ലെ മാറുന്ന കാന്തികക്ഷേത്രം ചുറ്റുമുള്ള ഒരു EMF ന് കാരണമാകുന്നുവെന്ന് നിങ്ങൾ കാണുന്നു ഈ സജ്ജീകരണത്തിൽ ലെൻസിന്റെ നിയമം കാണിക്കാൻ കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ ഒരു ചെറിയ കോയിലിൽ കാണിച്ചത്ഇപ്പോൾ ഈ വലിയ കോയിലിൽ ഞാൻ കാണിച്ചുതരാം ഞാൻ അത് ഓണാക്കിയ ഉടൻ ഈ ഡിസ്ക് മുകളിലേക്ക് നീങ്ങുന്നത് നിങ്ങൾ കാണും ലെൻസിന്റെ നിയമം തെളിയിക്കാൻ എനിക്ക് ഇവിടെ ഉള്ളത് ദ്വാരമുള്ള രണ്ട് കുഴലുകളാണ് ഈ ട്യൂബ് അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ട്യൂബ് ചെമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഈ ട്യൂബുകൾ വ്യത്യസ്ത ചാലകതയുടെ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ലെൻസിന്റെ നിയമം എന്താണെന്ന് ഓർക്കുക ലെൻസിന്റെ നിയമം പറയുന്നത് മാറുന്ന ഏത് കാന്തിക മണ്ഡലവും ആ മാറ്റത്തെ എതിർക്കുന്ന തീയിൽ വൈദ്യുത പ്രവാഹങ്ങൾ ഉണ്ടാക്കുന്നു ഒരു കാന്തം ഇതിനകത്ത് വച്ചാൽ കാന്തം താഴേക്ക് വീഴുകയാണെങ്കിൽ എല്ലായിടത്തും കാന്തികക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അത് ഈ ട്യൂബിൽ ഒരു വൈദ്യുതധാര ഉണ്ടാക്കുന്നുവെന്നും ഞാൻ കാണിച്ചുതരാം വൈദ്യുതധാരയുടെ ദിശ കാന്തം താഴേക്ക് ഇറങ്ങുന്നതിനെ എതിർക്കുന്ന തരത്തിലായിരിക്കണം അതിനാൽ കാന്തം വേഗത കുറയ്ക്കുന്നു ഇത് മാഗ്നറ്റിക് ബ്രേക്കിംഗ് എന്നറിയപ്പെടുന്നു അതിനാൽ അത് ഇവിടെ കാണിക്കാം കാന്തികമല്ലാത്ത ഈ ചോക്ക് കഷണം ഞാൻ എടുത്ത് ഇതിലൂടെ വെച്ചാൽ അത് പെട്ടെന്ന് താഴേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം അത് കാണാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഞാൻ എണ്ണാൻ തുടങ്ങാം അത് എത്ര എണ്ണം കുറയുമെന്ന് നിങ്ങൾ കാണും 1 2 2 വരെ എണ്ണാനുള്ള സമയം എടുത്തു ഞാൻ ഇവിടെ ചെമ്പ് ട്യൂബ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ചോക്ക് ഇവിടെ ഇടാം 1 2 അത് ഉടനെ താഴേക്ക് വരുന്നു ഇതിലൂടെ ഞാൻ ഒരു കാന്തം വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇതിനായി നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ ഞാൻ രണ്ട് വ്യത്യസ്ത കാന്തങ്ങൾ ഉപയോഗിക്കാം ഒന്ന് ഒരു ചെറിയ മാഗ്നെറ്റിക് മൊമെൻറ് ഉള്ള ഒരു ചെറിയ കാന്തമാണ് മറ്റൊന്ന് ഒരു വലിയ കാന്തമാണ് ഇതിന് വളരെ വലിയ മാഗ്നെറ്റിക് മൊമെൻറ് ഉണ്ട് അതിനാൽ നമുക്ക് അവ ഇതിൽ ഇട്ടു നോക്കാം നമുക്ക് ഒരു ചെറിയ മാഗ്നെറ്റിക് മൊമെൻറ് ഉള്ള ഈ കാന്തം എടുത്ത് ഈ ട്യൂബിലൂടെ ഇടാം ഓർക്കുക ചെമ്പ് വളരെ ഉയർന്ന ചാലകതയുള്ള വസ്തുവാണ് അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം 1 2 3 ഇതിന് കുറച്ച് കൂടുതൽ സമയമെടുത്തു അടുത്തതായി ഞാൻ വലിയ മാഗ്നെറ്റിക് മൊമെൻറ് ഉള്ള ഒരു കാന്തം എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം 1 2 3 4 5 ഇത് കൂടുതൽ സമയം എടുക്കുന്നതായി നിങ്ങൾക്ക് കാണാം ഞാൻ അത് ചെറിയ ചാലകതയിലോ വലിയ ദൂരത്തിലോ ഉള്ള ഒരു മെറ്റീരിയലിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും നമുക്ക് അത് നോക്കാം 1 2 3 ഇത് 3 ൽ പുറത്തേക്ക് വരുന്നു അതിനാൽ ചാലകത ചെറുതാണെങ്കിൽ അത് വേഗത്തിൽ പോകുന്നു അത് ഒരു തടി ട്യൂബ് ആണെങ്കിൽ അത് ശരിക്കും ഒരു വ്യത്യാസവും ഉണ്ടാക്കില്ല ഒരു കാന്തികമല്ലാത്ത വസ്തുവിനു തുല്യമായി വരുന്ന സമയത്ത് അത് താഴേക്ക് വരും നമുക്ക് ഒരിക്കൽക്കൂടി അലൂമിനിയം ഉപയോഗിച്ച് ചെയ്യാം അതിന് കൂടുതൽ സമയം എടുക്കുമെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നത് കാന്തം ഒരു ചാലക ട്യൂബിൽ ഇടുകയാണെങ്കിൽ അത് താഴേക്ക് വരുന്നതിനെ എതിർക്കുന്ന രീതിയിൽ വൈദ്യുതധാര സൃഷ്ടിക്കാൻ തുടങ്ങുന്നു ഈ മൂന്നാമത്തെ പ്രകടനത്തിൽ കാന്തികക്ഷേത്രം മാറ്റുന്നതിലൂടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലം യാഥാസ്ഥിതികമല്ലെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാൻ പോകുന്നു യാഥാസ്ഥിതികമല്ലാത്തതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം യാഥാസ്ഥിതികമല്ലാത്ത ഫീൽഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നൽകിയിരിക്കുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ നന്നായി നിർവചിക്കപ്പെട്ടിട്ടില്ല അത് പാതയെ ആശ്രയിച്ചാണിരിക്കുന്നത് അതിനാൽ എനിക്ക് ഇവിടെയുള്ളത് വീണ്ടും മാറുന്ന കാന്തിക മണ്ഡലം ഉണ്ടാക്കുന്ന അതേ കോയിൽ ആണ് കാരണം ഇത് ഇവിടെ AC യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അത് ഒരു വൈദ്യുത മണ്ഡലം ഉത്പാദിപ്പിക്കുന്നു എനിക്ക് ഇവിടെ ഒരു കോയിൽ ഉണ്ട് അത് ഒരു സാധാരണ ചാലക വയർ ആണ് അതിനുള്ളിൽ ഒരു പ്രതിരോധം കണക്റ്റുചെയ്തിരിക്കുന്നു ഞാൻ ഇത് ഇവിടെ ഇടാം അങ്ങനെ ഈ വയറിൽ ഒരു കറന്റ് ഉൽപാദിപ്പിക്കപ്പെടുന്നു ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള വോൾട്ടേജ് വ്യത്യാസം ഞാൻ എടുക്കുമ്പോൾ ഞാൻ അവയെ എങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വോൾട്ടേജ് വ്യത്യസ്തമായി വരുന്നതായി നിങ്ങൾക്ക് കാണാനാകും വോൾട്ടേജ് അളക്കാൻ നമ്മൾ ഈ മൾട്ടിമീറ്റർ ഇവിടെ ഉപയോഗിക്കുന്നു ഇത് AC യിൽ ഇടുക കാരണം ഇത് ഒരു AC ഉറവിടവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് EMF ഉൽപാദിപ്പിക്കുന്ന ഒരു ഇതര വൈദ്യുതധാരയുണ്ട് ഇപ്പോൾ ഞാൻ ഈ വയർ ഈ പ്രതിരോധത്തിന്റെ രണ്ടറ്റങ്ങളിലും നേരിട്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഞാൻ AC ഓൺ ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ റീഡിങ് എന്താണെന്ന് നമുക്ക് കാണാം അത് ഏകദേശം 0 226 ആണെന്ന് കാണാം ഇത് ഈ പാതയിലാണ് ഇപ്പോൾ അതേ രണ്ട് പോയിന്റുകൾ ഉപയോഗിച്ച് നമുക്ക് പാത മാറ്റാം ഞാൻ ഇത് അഴിച്ച് പുറകിൽ നിന്ന് എടുത്ത് റീഡിങ് എന്തായിരിക്കുമെന്ന് നോക്കാം അതേ രണ്ട് പോയിന്റുകൾ ഞാൻ ഇപ്പോൾ പിന്നിൽ നിന്ന് എടുക്കുന്നു ഞാൻ അത് ഓണാക്കുകയാണെങ്കിൽ ഒരേ രണ്ട് പോയിന്റുകൾക്ക് റീഡിങ് വളരെ ചെറുതാണെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങളിൽ ചിലർക്ക് ഞാൻ ചില മാജിക്കുകളോ മറ്റോ കാണിക്കുകയാണെന്ന് തോന്നിയിരിക്കാം നമുക്ക് അതേ വശത്ത് നിന്ന് വീണ്ടും ചെയ്യാം അപ്പോൾ റീഡിങ് 0 225 ലേക്ക് തിരിച്ചെത്തും ഞാൻ ഇത് ഇവിടെ കണക്റ്റുചെയ്യുന്നു വീണ്ടും അത് ഓൺ ചെയ്യാം നിങ്ങൾ വീണ്ടും കാണുന്നു അത് 0 23 വോൾട്ടുകളായി തിരിച്ചെത്തി അതിനാൽ ഈ രണ്ട് പോയിന്റുകളും ബന്ധിപ്പിച്ച് ഞാൻ ഏത് പാതയാണ് നിർമ്മിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് വോൾട്ടേജ് വ്യത്യസ്തമാണ് അതാണ് യാഥാസ്ഥിതികമല്ലാത്ത മേഖലയുടെ നിർവചനം അതിനാൽ നമ്മൾ ഇവിടെ കാണിച്ചത് ഈ മാറുന്ന കാന്തിക മണ്ഡലം യാഥാസ്ഥിതികമല്ലാത്ത ഒരു വൈദ്യുത മണ്ഡലം ഉണ്ടാക്കുന്നു എന്നാണ് അതിനാൽ ഈ പ്രകടനങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യ പ്രകടനത്തിൽ എനിക്ക് ലോഹ കാന്തിക സൈക്കിൾ സ്പോക്കുകൾ നിറച്ച ഒരു നീളമുള്ള പൈപ്പ് ഉണ്ടായിരുന്നു അതിനു ചുറ്റും AC വഹിക്കുന്ന ഈ വയറുകൾ ആയിരുന്നു ഇത് മെയിൻ സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ കറന്റ് ഓണാക്കിയ ഉടൻ ഒരു കാന്തികക്ഷേത്രം ഉത്പാദിപ്പിക്കപ്പെട്ടു അത് സമയത്തെ ആശ്രയിച്ചുള്ളതാണ് അത് വൈദ്യുതപ്രവാഹത്തിന് ആനുപാതികമാണ് അതിനാൽ dB by dt 0 ന് തുല്യമല്ല കൂടാതെ B ഈ ദിശയിലായതിനാൽ dB by dt യും ഈ ദിശയിലാണ് അതിനാൽ അതിനുചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉത്പാദിപ്പിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലം ഫൈ ദിശയിലെ E കോസൈൻ ഒമേഗ t യ്ക്ക് തുല്യമാണ് അതായിരുന്നു നിങ്ങൾ നിരീക്ഷിച്ച പ്രകടനം 1 ബൾബ് പ്രകാശിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഈ വൈദ്യുത മണ്ഡലം നിരീക്ഷിക്കാനാകും B∝Isinωt B∂t≠0 ϵcosωt നമ്പർ 2 നമുക്ക് ഒരു ദൃഢമായ പൈപ്പ് ഉണ്ടായിരുന്നു നമ്മൾ അതിനുള്ളിൽ ഒരു കാന്തം വെച്ചു ഈ കാന്തത്തിന് കാന്തികക്ഷേത്ര രേഖകൾ ഇങ്ങനെ പോകുന്നു ഇവിടെ ഓരോ പോയിന്റിലും കാന്തം താഴേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ കാന്തിക പ്രവാഹം മാറുന്നു കാന്തിക പ്രവാഹം മാറുമ്പോൾ അതിന് ചുറ്റും ഒരു വൈദ്യുത മണ്ഡലം ഉണ്ടാകുന്നു നമുക്ക് അത് നീല നിറത്തിൽ കാണിക്കാം അത് ഷെല്ലിൽ ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നു ആ വൈദ്യുതധാര കാന്തത്തിന്റെ ചലനത്തെ എതിർക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉയർന്ന ചാലകത ഉയർന്ന മാഗ്നെറ്റിക് മൊമെൻറ് ഉയർന്ന ഷെല്ലിന്റെ ആരം കനം എന്നിവയെ ആശ്രയിച്ച് വൈദ്യുതധാര അല്ലെങ്കിൽ കാന്തത്തിന്റെ വേഗത കുറയുന്നു അവിടെ ഒരു അളവ് കൂടിയുണ്ട് mu 0 അതാണ് സ്പെയ്സിലെ പ്രവേശനക്ഷമത ഒരു ത്രിമാന വിശകലനത്തിലൂടെ ഇവയെല്ലാം സംയോജിപ്പിച്ച് കാന്തം താഴെ എത്താൻ എടുക്കുന്ന സമയത്തിന് ഒരു ഫോർമുല എനിക്ക് സൃഷ്ടിക്കാൻ കഴിയും ഒരു അസൈൻമെന്റ് പ്രശ്നമായി ഞാൻ അത് തരാം കാന്തം മന്ദഗതിയിലാക്കാനുള്ള ഈ സാങ്കേതികത ഷോക്ക് അബ്സോർബറുകൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു അതിലൂടെ നിങ്ങൾ ഒരു ഫെറോഫ്ലൂയിഡ് ഇടുന്നു അത് ഒരു ട്യൂബിൽ ഫെറോമാഗ്നറ്റിക് കണങ്ങളെ വഹിക്കുന്നു ഇതിൽ നിങ്ങൾ ഒരു വടി വയ്ക്കുക അതിന് മുകളിൽ വേഗത കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്ലാറ്റ്ഫോമോ കാറോ ഉപയോഗിക്കുക അത് മുകളിലേക്കും താഴേക്കും നീങ്ങുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങൾ ഒരു കറന്റ് ഒഴുകാൻ അനുവദിക്കുക കറന്റ് ഒഴുകുമ്പോൾ ഒരു കാന്തികക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നു ഈ ചുവന്ന വടി മുകളിലേക്കും താഴേക്കും നീങ്ങാൻ തുടങ്ങുമ്പോൾ ഈ കാന്തികക്ഷേത്രം കാരണം ഒരു വൈദ്യുത മണ്ഡലം ഉത്പാദിപ്പിക്കുകയും അത് ഈ ഫെറോഫ്ലൂയിഡിൽ ഒരു വൈദ്യുതധാര ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് മാറ്റത്തെ എതിർക്കുന്നു അതിനാൽ ചലനം മന്ദഗതിയിലാകുന്നു അല്ലെങ്കിൽ പതുക്കെ ആക്കുന്നു മൂന്നാമതായി ഉൽപാദിപ്പിക്കുന്ന വൈദ്യുത മണ്ഡലത്തിന്റെ യാഥാസ്ഥിതികമല്ലാത്ത സ്വഭാവം ഞാൻ കാണിച്ചുതന്നു എനിക്ക് ഇതുപോലെ മാതൃകയാക്കാം ഈ ഫീൽഡിൽ ചുറ്റും ഒരു വളയം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ചില പ്രതിരോധങ്ങളും മറുവശത്ത് മറ്റ് ചില പ്രതിരോധങ്ങളും ഉണ്ടായിരുന്നു ഈ ചുവന്ന ഭാഗത്ത് നിന്ന് ഞാൻ വയറുകൾ എടുത്ത് ഇത് ഒരു വോൾട്ട്മീറ്ററുമായി ബന്ധിപ്പിച്ചപ്പോൾ എനിക്ക് ഒരു റീഡിങ് ലഭിച്ചു ഞാൻ മറുവശത്ത് വയറുകൾ ബന്ധിപ്പിച്ചപ്പോൾ എനിക്ക് മറ്റൊരു റീഡിങ് ലഭിച്ചു ഒരാൾക്ക് ഇത് വിശകലനം ചെയ്ത് ഈ റീഡിങ്ങുകൾ എന്തായിരിക്കണമെന്ന് പരിശോധിക്കാം പ്രകടനത്തിൽ അവ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ കണ്ടു അതിനാൽ ഫീൽഡിന്റെ സ്വഭാവം യാഥാസ്ഥിതികമല്ല ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ സ്വയം അടയ്ക്കുന്നതിനാലാണിത് അതിനാൽ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യലുകളെ എനിക്ക് ശരിക്കും നിർവ്വചിക്കാൻ കഴിയില്ല ഞാൻ രണ്ടുതവണ പോയാൽ പൊട്ടൻഷ്യലുകൾ വലുതായിരിക്കും വോൾട്ട്മീറ്റർ രണ്ട് വ്യത്യസ്ത വശങ്ങളിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം കണക്കാക്കാൻ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു അസൈൻമെന്റ് പ്രശ്നം നൽകുന്നതായിരിക്കും